തിരച്ചിലിന്റെ ഫലം തിരച്ചിലിന്റെ ഫലം ഒരിക്കൽ തിരച്ചിൽ നടത്തികഴിഞ്ഞാൽ മൂന്ന് സാദ്ധ്യതകൾ അതിന്റെ ഫലമായി ഉണ്ടാകാം ഒരിക്കൽ തിരച്ചിൽ നടത്തികഴിഞ്ഞാൽ മൂന്ന് സാദ്ധ്യതകൾ അതിന്റെ ഫലമായി ഉണ്ടാകാം ഒന്നുകിൽ അത് അനുകൂലമായ ഒരു ഫലമായിരിക്കാം ഒന്നുകിൽ അത് അനുകൂലമായ ഒരു ഫലമായിരിക്കാം അങ്ങെനെയെങ്ങിൽ കണ്ടെത്തലിന് പേറ്റന്റ് ലഭിക്കുമെന്ന് നിങ്ങൾ ക്ലയന്റിനെ അറിയിക്കുന്നു അങ്ങെനെയെങ്ങിൽ കണ്ടെത്തലിന് പേറ്റന്റ് ലഭിക്കുമെന്ന് നിങ്ങൾ ക്ലയന്റിനെ അറിയിക്കുന്നു അതല്ലെങ്കിൽ ഒരു നെഗറ്റീവ് റിപ്പോർട്ടായിരിക്കാം അതല്ലെങ്കിൽ ഒരു നെഗറ്റീവ് റിപ്പോർട്ടായിരിക്കാം അങ്ങെനെയെങ്ങിൽ കണ്ടെത്തലിന് പേറ്റന്റ് ലഭിക്കാൻ ഇടയില്ല എന്ന് നിങ്ങൾ ക്ലയന്റിനെ അറിയിക്കുന്നു അങ്ങെനെയെങ്ങിൽ കണ്ടെത്തലിന് പേറ്റന്റ് ലഭിക്കാൻ ഇടയില്ല എന്ന് നിങ്ങൾ ക്ലയന്റിനെ അറിയിക്കുന്നു കണ്ടെത്തൽ ഒരിക്കലും പേറ്റന്റ് ചെയ്യപ്പെടില്ല പേറ്റന്റ് ചെയ്യാൻ കഴിയില്ല എന്നായിരിക്കില്ല നിങ്ങൾ പറയുന്നത് കണ്ടെത്തൽ ഒരിക്കലും പേറ്റന്റ് ചെയ്യപ്പെടില്ല പേറ്റന്റ് ചെയ്യാൻ കഴിയില്ല എന്നായിരിക്കില്ല നിങ്ങൾ പറയുന്നത് നിങ്ങൾ വളരെ ജാഗ്രതയോടെ ആയിരിക്കും അത് നിങ്ങളുടെ റിപ്പോർട്ടിൽ വിവരിക്കുക കാരണം നമ്മൾ പറഞ്ഞത് പോലെ എല്ലാം തികഞ്ഞ പേറ്റന്റെബിലിറ്റി തിരച്ചിൽ റിപ്പോർട്ട് എന്നൊന്നില്ല നിങ്ങൾ വളരെ ജാഗ്രതയോടെ ആയിരിക്കും അത് നിങ്ങളുടെ റിപ്പോർട്ടിൽ വിവരിക്കുക കാരണം നമ്മൾ പറഞ്ഞത് പോലെ എല്ലാം തികഞ്ഞ പേറ്റന്റെബിലിറ്റി തിരച്ചിൽ റിപ്പോർട്ട് എന്നൊന്നില്ല കണ്ടെത്തൽ അനുവദിക്കപ്പെടാതിരിക്കാനുള്ള സാധ്യതയുണ്ടന്ന് നിങ്ങൾ അറിയിക്കുന്നു കണ്ടെത്തൽ അനുവദിക്കപ്പെടാതിരിക്കാനുള്ള സാധ്യതയുണ്ടന്ന് നിങ്ങൾ അറിയിക്കുന്നു ചിലപ്പോൾ അത് ഒരു നിഷ്പക്ഷ റിപ്പോർട്ടായിട്ടുമാകാം ചിലപ്പോൾ അത് ഒരു നിഷ്പക്ഷ റിപ്പോർട്ടായിട്ടുമാകാം നിഷ്പക്ഷ റിപ്പോർട്ടിൽ കണ്ടെത്തലിന് ന്യായമായ സാദ്ധ്യതയുണ്ടെന്നും എന്നാൽ അതിൽ ചില എതിർപ്പുകളും ഉള്ളത് കൊണ്ട് കണ്ടെത്തൽ അനുവദിക്കപ്പെടാൻ 50 50 ശതമാനം സാദ്ധ്യത മാത്രമെയുള്ളുവെന്നും നിങ്ങൾ പറയുന്നു നിഷ്പക്ഷ റിപ്പോർട്ടിൽ കണ്ടെത്തലിന് ന്യായമായ സാദ്ധ്യതയുണ്ടെന്നും എന്നാൽ അതിൽ ചില എതിർപ്പുകളും ഉള്ളത് കൊണ്ട് കണ്ടെത്തൽ അനുവദിക്കപ്പെടാൻ 50 50 ശതമാനം സാദ്ധ്യത മാത്രമെയുള്ളുവെന്നും നിങ്ങൾ പറയുന്നു ക്ലയന്റ് നിർബന്ധിച്ചാൽ ഇതിനോടൊപ്പം നിങ്ങൾക്ക് പേറ്റൻറ്റബിലിറ്റി റിപ്പോർട്ടും നൽകാവുന്നതാണ് ക്ലയന്റ് നിർബന്ധിച്ചാൽ ഇതിനോടൊപ്പം നിങ്ങൾക്ക് പേറ്റൻറ്റബിലിറ്റി റിപ്പോർട്ടും നൽകാവുന്നതാണ് പേറ്റൻറ്റബിലിറ്റി റിപ്പോർട്ടിൽ പുതുമയുള്ള കണ്ടെത്തൽ ഘട്ടത്തെക്കുറിച്ചും അതിന്റെ വ്യാവസായിക പ്രയോഗികതയെ കുറിച്ചും ഒരു ഹ്രസ്വ വിവരണം ഉണ്ടാകും പേറ്റൻറ്റബിലിറ്റി റിപ്പോർട്ടിൽ പുതുമയുള്ള കണ്ടെത്തൽ ഘട്ടത്തെക്കുറിച്ചും അതിന്റെ വ്യാവസായിക പ്രയോഗികതയെ കുറിച്ചും ഒരു ഹ്രസ്വ വിവരണം ഉണ്ടാകും അതിൽ പേറ്റന്റബിളിറ്റിക്കുള്ള അപവാദങ്ങളെക്കുറിച്ചും പ്രസക്തമായ രീതിയിൽ ചില വിവരങ്ങൾ ഉണ്ടായിരിക്കും അതിൽ പേറ്റന്റബിളിറ്റിക്കുള്ള അപവാദങ്ങളെക്കുറിച്ചും പ്രസക്തമായ രീതിയിൽ ചില വിവരങ്ങൾ ഉണ്ടായിരിക്കും തിരച്ചിലിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് പേറ്റന്റ് നേടാൻ കഴിയുന്ന സാധ്യതാ ഇടങ്ങൾ തിരിച്ചറിയാൻ പേറ്റന്റബിലിറ്റി സെർച്ച് നിങ്ങളെ സഹായിക്കുന്നു തിരച്ചിലിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് പേറ്റന്റ് നേടാൻ കഴിയുന്ന സാധ്യതാ ഇടങ്ങൾ തിരിച്ചറിയാൻ പേറ്റന്റബിലിറ്റി സെർച്ച് നിങ്ങളെ സഹായിക്കുന്നു ഭാവിയിൽ ഉന്നയിക്കപ്പെടാൻ സാധ്യതയുള്ള തർക്കങ്ങൾ ഒഴിവാക്കാൻ അത് സഹായിക്കുന്നു ഭാവിയിൽ ഉന്നയിക്കപ്പെടാൻ സാധ്യതയുള്ള തർക്കങ്ങൾ ഒഴിവാക്കാൻ അത് സഹായിക്കുന്നു മാത്രമല്ല പേറ്റന്റ് സ്പെസിഫിക്കേഷൻ മനസിലാക്കാൻ കഴിയുന്ന തരത്തിൽ പ്രവർത്തന മേഖല മനസിലാക്കാനും അത് നിങ്ങളെ സഹായിക്കുന്നു മാത്രമല്ല പേറ്റന്റ് സ്പെസിഫിക്കേഷൻ മനസിലാക്കാൻ കഴിയുന്ന തരത്തിൽ പ്രവർത്തന മേഖല മനസിലാക്കാനും അത് നിങ്ങളെ സഹായിക്കുന്നു പേറ്റന്റബിലിറ്റി റിപ്പോർട്ടിൽ നിന്ന് പേറ്റന്റ് ഏജന്റിന്ന് ഉപയോഗിക്കാവുന്ന വിവരങ്ങൾ ലഭിക്കും എന്ന് നമ്മൾ ഇതിനകം മനസിലാക്കിയതാണ് പേറ്റന്റബിലിറ്റി റിപ്പോർട്ടിൽ നിന്ന് പേറ്റന്റ് ഏജന്റിന്ന് ഉപയോഗിക്കാവുന്ന വിവരങ്ങൾ ലഭിക്കും എന്ന് നമ്മൾ ഇതിനകം മനസിലാക്കിയതാണ് പേറ്റന്റബിലിറ്റി സെർച്ച് എന്താണെന്ന് നമ്മൾ അടുത്ത പ്രഭാഷണത്തിൽ മനസിലാക്കും പേറ്റന്റബിലിറ്റി സെർച്ച് എന്താണെന്ന് നമ്മൾ അടുത്ത പ്രഭാഷണത്തിൽ മനസിലാക്കും പിന്നാലെ നമ്മൾ അതിന്റെ വിശദാംശങ്ങളും ചർച്ച ചെയ്യും പിന്നാലെ നമ്മൾ അതിന്റെ വിശദാംശങ്ങളും ചർച്ച ചെയ്യും